ഇന്റർകണക്ട് മോഡലിംഗിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച തുടരുന്നു അതിനാൽ ഞങ്ങളുടെ അവസാന പ്രഭാഷണത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ വ്യത്യസ്ത ലേയേർസിലെ ചില പ്രതിരോധശേഷി കപ്പാസിറ്റീവ് സ്വാധീനങ്ങൾ ഞങ്ങൾ നോക്കി ഒരു ലെയറിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുമ്പോൾ പ്രതിരോധത്തിന്റെയും കപ്പാസിറ്റൻസിന്റെയും മൂല്യങ്ങളും വ്യാപ്തിയും എങ്ങനെ വ്യത്യാസപ്പെടാം ഞങ്ങളുടെ ചർച്ചകൾ തുടരുന്നതിലൂടെ ഞങ്ങൾ ഇപ്പോൾ വ്യാപനവും പോളിസിലിക്കൺ ലേയേർസും നോക്കുന്നു അതിനാൽ n p മേഖലകൾക്കുള്ള ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് വളരെ ഉയർന്നതാണെന്ന് ഞങ്ങൾ കണ്ടു എത്ര ഉയർന്നത് മൂല്യങ്ങൾ ഗേറ്റ് കപ്പാസിറ്റൻസുകളുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് അതിനാൽ വ്യാപന ലേയേർസിന്റെ മറ്റൊരു പ്രശ്നം വ്യാപനത്തിന് ഉയർന്ന പ്രതിരോധം ഉണ്ട് എന്നതാണ് അതിനാൽ ഡിഫ്യൂഷൻ ഒരു ലെയറാണ് അവിടെ പ്രതിരോധവും കപ്പാസിറ്റൻസ് മൂല്യങ്ങളും കൂടുതലാണ് അതിനാൽ ലേയൌട്ടിലെ 2 ഘടകങ്ങൾ തമ്മിലുള്ള ചില പരസ്പരബന്ധം ഡിഫ്യൂഷൻ ലെയറിൽ ഉണ്ടാക്കണമെന്ന് നിരുത്സാഹപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും എന്നാൽ ഒരു പോളിസിലിക്കൺ ലേയേർസിനെ കപ്പാസിറ്റൻസിന്റെ മൂല്യം കുറവാണ് പക്ഷേ പ്രതിരോധ മൂല്യം ഇപ്പോഴും ഉയർന്നതാണ് പക്ഷേ കപ്പാസിറ്റൻസ് മൂല്യം വ്യാപനത്തേക്കാൾ വളരെ കുറവായതിനാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ വളരെ അടുത്തുള്ള 2 പോയിന്റുകൾ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകുന്നത് പോലുള്ള കണക്ഷനുകൾക്കായി നിങ്ങൾക്ക് പോളിസിലിക്കൺ ലേയേർസ് ഉപയോഗിക്കാം ഞങ്ങളുടെ അവസാന പ്രഭാഷണ വേളയിൽ ഞങ്ങൾ കണ്ട ഈ ലേഔട്ട് നിങ്ങൾ നോക്കൂ അവിടെ ഞങ്ങൾ ഒരു CMOS ഇൻവെർട്ടറിന്റെ ലേഔട്ട് കാണിച്ചു അതിനാൽ അത് എങ്ങനെ കാണപ്പെടുന്നു ഞാൻ യഥാർത്ഥ പ്രതീകാത്മക ഈ സ്കീമാറ്റിക് ലേഔട്ട് കാണിക്കില്ല ഞാൻ ഈ സ്റ്റിക്ക് ഡയഗ്രം കാണിക്കും എന്നാൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന കാര്യം നമുക്ക് കാസ്കേഡിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന 2 ഇൻവെർട്ടറുകൾ ഉണ്ടെന്ന് പറയട്ടെ ഒരുപക്ഷേ ഞങ്ങൾ ഒരുതരം ബഫർ രൂപകൽപ്പന ചെയ്യുന്നു ഇത് എ ഇത് ബി ഇത് സി എന്ന് നമുക്ക് പറയാം നമുക്ക് സ്റ്റിക്ക് ഡയഗ്രമുകൾ വരയ്ക്കാൻ ശ്രമിക്കാം അതിനാൽ സ്റ്റിക്ക് ഡയഗ്രം ഇവയാണ് Vdd ഉം ഗ്രൌണ്ട് ലൈനുകളും ഞാൻ 2 ഗേറ്റുകൾ വശങ്ങളിലായി കാണിക്കുന്നു ഇതാണ് ഡിഫ്യൂഷൻ ലൈനുകൾ ഇതാണ് p ഡിഫ്യൂഷൻ അതിനാൽ ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് 2 ട്രാൻസിസ്റ്ററുകൾ രൂപീകരിക്കുന്ന പോളിസിലിക്കൺ ലൈൻ ഉണ്ട് കൂടാതെ 2 ട്രാൻസിസ്റ്ററുകൾ രൂപീകരിക്കുന്ന മറ്റൊരു പോളിസിലിക്കൺ ലൈനും ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷന്റെ സ്റ്റിക്ക് ഡയഗ്രം ലേഔട്ട് ആണ് അതിനാൽ മുമ്പത്തെ കേസിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം ഇവിടെ ഈ ലേഔട്ട് ഒരു മെറ്റൽ ലേയേർസിൽ ഔട്ട്പുട്ട് f എടുക്കുന്നതായി കാണിച്ചു അതിനാൽ ഈ കോൺടാക്റ്റ് കണക്ഷൻ യഥാർത്ഥത്തിൽ ഒരു ഡിഫ്യൂഷനും മെറ്റലും തമ്മിലുള്ള ഒരു സമ്പർക്കമായിരുന്നു അതിനാൽ അതുകൊണ്ടാണ് ഈ ലൈൻ നീലയായി കാണിക്കുന്നത് എന്നാൽ നിങ്ങൾ ഇവിടെ ഈ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ ഔട്ട്പുട്ട് അടുത്ത ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് പോകേണ്ടതുണ്ട് അതിനാൽ ഈ ഔട്ട്പുട്ട് ഈ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനാൽ 2 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഞാൻ അവരെ വശങ്ങളിലായി കാണിക്കുന്നു അതിനാൽ ആദ്യ ആൾട്ടർനേറ്റീവ്സ് ഇവിടെ നിന്നാണ് നിങ്ങൾ ഒരു മെറ്റൽ ലൈൻ വഹിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു കോൺടാക്റ്റ് കണക്ഷൻ ഉണ്ടാക്കുന്നു ഇവിടെ മെറ്റലിനും പോളിസിലിക്കോണിനും ഇടയിൽ നിങ്ങൾ മറ്റൊരു കോൺടാക്റ്റ് കണക്ഷൻ ഉണ്ടാക്കുന്നു ഇപ്പോൾ മറ്റൊരു ആൾട്ടർനേറ്റീവ് ആകാം അതിനാൽ നിങ്ങൾ ഈ രേഖ മെറ്റലിൽ വരയ്ക്കരുത് നേരിട്ട് ഒരു പോളിസിലിക്കൺ ലൈൻ ഉപയോഗിക്കുക എന്ന് ഒന്നിനു താഴെ ഒന്നായി ഞാൻ കാണിക്കുന്നു നിങ്ങൾ ഒരു വശത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺടാക്റ്റും ആവശ്യമില്ല അത് ഇതിനകം പോളിസിലിക്കണിലാണ് അതിനാൽ ഈ വശത്ത് മാത്രമേ നിങ്ങൾക്ക് പോളിസിലിക്കണും ഡിഫ്യൂഷനും തമ്മിലുള്ള ബന്ധം ആവശ്യമായി വരൂ ഈ കോൺടാക്റ്റുകളിൽ ഓരോന്നും അവർ അധിക പ്രദേശം ഉൾക്കൊള്ളുന്നുവെന്ന് നിങ്ങൾ കാണുന്നു കൂടാതെ ഡിലേയ്ക്കും മറ്റ് കാര്യങ്ങൾക്കും അവർ അധിക RC വഹിക്കുന്നു അതിനാൽ സമ്പർക്കം കുറയ്ക്കുന്നത് ഒരു നല്ല കാര്യമാണ് അതിനാൽ ഈ 2 ട്രാൻസിസ്റ്ററുകൾ ഒരുമിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അവ നേരിട്ട് ഇതുപോലെ ബന്ധിപ്പിക്കാനും പോളിസിലിക്കണിൽ എടുക്കാവുന്ന ഔട്ട്പുട്ട് നേരിട്ട് അടുത്ത ഗേറ്റിലേക്ക് നൽകാനും കഴിയും ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നത് ഇതാണ് ഗേറ്റുകൾക്കിടയിലുള്ള വളരെ ചെറിയ വയറുകൾക്കായി നിങ്ങൾക്ക് ഇടയ്ക്കിടെ പോളിസിലിക്കൺ ഉപയോഗിക്കാം എന്നാൽ ഡിഫ്യൂഷൻ ലെയറിനുള്ള R C മൂല്യങ്ങൾ കൂടുതലായതിനാൽ പരസ്പരബന്ധമായി വ്യാപനം ഒഴിവാക്കണം ഇപ്പോൾ ഞങ്ങൾ വയറുകൾ മോഡൽ ചെയ്യുമ്പോൾ വിവിധ ഡിലേയ് മോഡലുകളിലും നേരത്തെ കണ്ടിട്ടുണ്ട് പ്രതിരോധവും കപ്പാസിറ്റൻസ് മൂല്യങ്ങളും വിതരണം ചെയ്യും അതിനാൽ അഭിമുഖീകരിക്കുന്ന മൊത്തം പ്രതിരോധം പ്രതിരോധശേഷിയുള്ള ലോഡ് R ആകാം മൊത്തം കപ്പാസിറ്റീവ് ലോഡ് C ആകാം പക്ഷേ വയർ ദീർഘദൂരത്തേക്ക് ഓടുമ്പോൾ അതിനാൽ ഞങ്ങൾ സാധാരണയായി ഒരു സ്ഥലത്ത് മൊത്തം പ്രതിരോധം R ന് പകരം ഒരു മോഡൽ പ്രതിനിധീകരിക്കുന്നു N സെഗ്മെന്റുകളും R N R N പ്രതിരോധങ്ങളും സീരീസ് N ടൈമുകളിൽ വരുന്നതുപോലെ മൊത്തം കപ്പാസിറ്റൻസ് സി ഇത് സമാന്തരമായി C N C N N ആയി കാണാവുന്നതാണ് അതിനാൽ ഈ ഇന്റർകണക്ഷൻ വയർ മോഡലിംഗ് ചെയ്യുന്നതിനുള്ള ചില വഴികൾ ഇവയാണ് വയറുകൾ അതിന്റെ നീളത്തിൽ വിതരണം ചെയ്യുന്ന ഈ RC മൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതായി കണക്കാക്കുന്നു ഇതിനെ യഥാർത്ഥത്തിൽ വിളിക്കുന്നു മൂലക മോഡലുകൾ എന്നും ഈ മൂല്യങ്ങൾ നിങ്ങൾ വിതരണം ചെയ്യുന്ന രീതിയെ പരമ്പരാഗതമായി 3 വഴികളുണ്ട് ഒന്ന് L മോഡൽ എന്ന് വിളിക്കുന്നു അവിടെ R C എന്നിവയ്ക്കായി നിങ്ങൾ കാണിക്കുന്നു അതു പോലെ ഈ R പരമ്പരയിലാണ് അതിനു ശേഷം C ഗ്രൌണ്ടിന് സമാന്തരമായി വരുന്നു Pi മോഡൽ Pi പോലെ കാണപ്പെടുന്നു ഈ ഘടന R ശ്രേണിയിലാണ് മൊത്തം കപ്പാസിറ്റൻസ് C 2 C 2 എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു അവ സമാന്തരമായി വരുന്നു പിളർന്നിട്ടില്ല പ്രതിരോധ മൂല്യം വിഭജിക്കപ്പെടുന്നിടത്ത് ഇത് ഒരു T പോലെ കാണപ്പെടുന്നു ഇപ്പോൾ ഇതുപോലുള്ള വിവിധ മോഡലുകൾ വിശകലനം ചെയ്യപ്പെടുകയും കൂടുതൽ കൃത്യമായ ഡിലേയ്യുമായി ബന്ധപ്പെട്ട് വേർതിരിച്ചെടുത്ത മൂല്യങ്ങൾ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് മറ്റ് കാര്യങ്ങൾ എന്നിവ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഇത് Pi മോഡലിന്റെ ഒരു ഭാഗമാണെന്ന് കണ്ടെത്തി നിങ്ങൾ 3 സെഗ്മെന്റുകൾ ഒന്നിനുപുറകെ മറ്റൊന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൃത്യതയുള്ളതായി കാണപ്പെടുന്നു അതായത് 3 ശതമാനത്തിന് കൃത്യമാണ് അതായത് യഥാർത്ഥത്തിന്റെ 3 ശതമാനം അതിനാൽ ഒരു 3 സെഗ്മെന്റ് Pi മോഡൽ വളരെ നല്ല ഫലങ്ങൾ നൽകുന്നു എന്നാൽ നിങ്ങൾ L മോഡൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതേ അളവിലുള്ള കൃത്യത കൈവരിക്കാൻ നിങ്ങൾക്ക് ഈ L മോഡലിന്റെ 100 സെഗ്മെന്റ് ആവശ്യമാണ് അതിനാൽ സിമുലേഷൻ സമയത്ത് കണക്കുകൂട്ടൽ സമയത്തിന്റെ കാര്യത്തിൽ ഇത് കൂടുതൽ ചെലവേറിയതായിരിക്കും നിങ്ങൾ ക്ലോക്ക് റൂട്ടിംഗും മറ്റ് കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ ഡിലേയ് സന്തുലിതമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്റർകണക്ഷൻ ഡിലേയ് വേഗത്തിലാക്കാൻ ഞങ്ങൾ പലപ്പോഴും എൽമോർ ഡിലേയ് മോഡൽ ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ ഞങ്ങൾ മനസ്സിലാക്കി എന്നാൽ അവിടെ ഞങ്ങൾക്ക് ചില എസ്റ്റിമേറ്റ് ആവശ്യമാണ് നിങ്ങൾ ഈ മോഡലുകളുടെ അനവധി തലങ്ങൾ സിമുലേഷനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് സമയമെടുക്കും അതിനാൽ ആ കേസുകളിൽ എന്താണ് ചെയ്യുന്നത് സിംഗിൾ സെഗ്മെന്റ് Pi മോഡൽ Pi മോഡൽ ആ സന്ദർഭങ്ങളിൽ ചെറിയ വയർ സെഗ്മെന്റുകളിൽ എൽമോർ ഡിലേയ് കണക്കാക്കാൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ 3 സെഗ്മെന്റ് പൈ മോഡൽ കാണിക്കുന്ന ഒരു ഉദാഹരണമാണിത് അതിനാൽ ഉദാഹരണം ഇതുപോലെയാണ് ഞങ്ങൾ വീണ്ടും 180 നാനോമീറ്റർ പ്രക്രിയ എടുക്കുന്നുവെന്ന് പറയാം ഞങ്ങൾ മെറ്റൽ 2 വയർ പരിഗണിക്കുന്നു 5 മില്ലീമീറ്റർ നീളവും 0 32 മൈക്രോമീറ്റർ വീതിയുമുണ്ടെന്ന് നമുക്ക് പറയാം വയർ എങ്ങനെ കാണപ്പെടും വയർ ഇതുപോലെ കാണപ്പെടുന്നു നീളം 5 മില്ലീമീറ്ററാണ് വീതി 0 32 മൈക്രോമീറ്ററാണ് അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വീണ്ടും സമാനമായി ചതുര ബോക്സുകളുടെ അടിസ്ഥാനത്തിൽ വിവേചനാധികാരം നൽകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ചതുരം ഓരോന്നും 0 32 മൈക്രോൺ 0 32 മൈക്രോണായിരിക്കും ഇതും 0 32 ആയിരിക്കും അപ്പോൾ അത്തരം എത്ര പെട്ടികൾ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ഇത് 5 മില്ലീമീറ്റർ കൊണ്ട് വിഭജിക്കുകയാണെങ്കിൽ 5 മില്ലീമീറ്റർ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് 5 മില്ലി 10 മുതൽ വൈദ്യുതി മൈനസ് 3 0 32 10 വരെ പവർ മൈനസ് 6 ഇത് 5000 വരും നിങ്ങൾ ഇത് 32 എടുത്താൽ മറ്റൊരു 2 പൂജ്യങ്ങൾ 32 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് ഏകദേശം 16000 ആയിരിക്കും മെറ്റൽ 2 വയറിനായി R ബോക്സിന്റെ മൂല്യം ഓരോ ബോക്സിനും 0 05 ohm ആണെന്ന് നിങ്ങൾ കരുതുന്നു ഇപ്പോൾ നിങ്ങൾ ഏകദേശം 16000 കണക്കാക്കിയ ബോക്സുകളുടെ എണ്ണം അതിനാൽ നിങ്ങൾ 0 05 ആ സംഖ്യ 16000 കൊണ്ട് ഗുണിച്ചാൽ മൊത്തം പ്രതിരോധം ഏകദേശം 781 ohm വരും അതിനാൽ നിങ്ങൾ പ്രതിരോധം കണക്കുകൂട്ടുന്നത് ഇങ്ങനെയാണ് ഒരു ബോക്സിന്റെ പ്രതിരോധ മൂല്യം കണക്കാക്കുക ബോക്സിൻറെ പ്രതിരോധ മൂല്യം ഇതിനകം നൽകിയിട്ടുണ്ട് R ബോക്സ് 0 05 ആണ് നിങ്ങൾ ഇവ രണ്ടിനെയും ഗുണിക്കുന്നു ബോക്സുകളുടെ പ്രതിരോധം ബോക്സുകളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഈ മൂല്യം ഏകദേശം 781 Ohms വരുന്നു കൂടാതെ ഈ മെറ്റൽ 2 വയർക്കുള്ള മൈക്രോൺ കപ്പാസിറ്റൻസ് ഓരോ മൈക്രോമീറ്ററിനും ഏകദേശം 0 2 ഫെംറ്റോ ഫറാഡ് ആണ് ഇപ്പോൾ വയർ 5 മില്ലീമീറ്റർ നീളമുള്ളതിനാൽ അതായത് 5000 മൈക്രോമീറ്റർ നിങ്ങൾ ഗുണിച്ചാൽ അത് 1 പിക്കോഫറാഡ് ആയി മാറുന്നു അതിനാൽ ഒരു 3 സെഗ്മെന്റ് Pi യിൽ 3 പ്രതിരോധങ്ങൾ ഉണ്ട് 781 നെ 3 കൊണ്ട് ഹരിച്ചാൽ ഏകദേശം 260 ആണ് അതിനാൽ 260 ഉം ഈ 1 പിക്കോഫറാഡും 6 കൊണ്ട് ഹരിച്ചാൽ ഏകദേശം 167 ഫെംറ്റോ ഫറാഡിലേക്ക് വരുന്നു അതിനാൽ ഈ കപ്പാസിറ്റൻസ് ഓരോന്നും 167 ആയിരിക്കും കാരണം നിങ്ങൾ അവയെ കൂട്ടിച്ചേർത്താൽ അത് 1 p F ആയിരിക്കും അതിനാൽ ഈ മാതൃക സൃഷ്ടിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ മോഡൽ സൃഷ്ടിച്ചുകഴിഞ്ഞാൽ അവിടെയുണ്ട് യഥാർത്ഥത്തിൽ അനുകരിക്കാനുള്ള നിരവധി വഴികൾ സ്പൈസ് സിമുലേഷൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ മറ്റ് അർത്ഥമാക്കുന്നു ഈ മോഡലിൽ നിന്ന് ഡിലേയ് കണക്കാക്കാം അടുത്തതായി ഒരു വയറിന്റെ RC ഡിലേയ് നിങ്ങൾക്ക് കണക്കാക്കാൻ ഒരു വഴി നോക്കാം അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം 10 X ഇൻവെർട്ടർ ഡ്രൈവ് ചെയ്യുന്നത് 2 X ഇൻവെർട്ടർ എന്നാണ് ഒരു ചെറിയ ഇൻവെർട്ടർ ഓടിക്കുന്ന ഒരു വലിയ ഇൻവെർട്ടർ എനിക്കുണ്ട് ഇത് ഞാൻ പറയുന്നത് 10 X ഇത് ഞാൻ പറയുന്നത് 2 X 10 X ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ഇവിടെ ചാനലിന്റെ പ്രദേശം ഇതുപോലെയാകാം നമുക്ക് k k എന്ന് പറയാം എന്നാൽ ഈ സാഹചര്യത്തിൽ 10 X ന് ചാനലിന്റെ വിസ്തീർണ്ണം 10 k 10 k ആയിരിക്കും ഇത് 10 X എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തീർച്ചയായും 2 X ആണ് ക്ഷമിക്കണം അത് 5 തവണ 5 k ആയിരിക്കണം അതിനാൽ ഈ സാഹചര്യത്തിൽ ഗേറ്റ്സ് റെസിസ്റ്റീവിറ്റിക്കായി പ്രതിരോധ മൂല്യം 2 5 കിലോ ohm മൈക്രോമീറ്ററാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഇവിടെ നിങ്ങൾ എൽമോർ ഡിലേയ് R RC ക്കുവേണ്ടി പരിഗണിക്കുമ്പോൾ ഞങ്ങൾ സാധാരണയായി എൽമോർ ഡിലേയ് പരിഗണിക്കും അതിനാൽ മുമ്പത്തെ കേസിൽ ഞങ്ങൾ ഇതിനകം ഈ 781 ഓംസും 1 പിക്കോഫറാഡും കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ ഇത് 781 ohm ആണ് 1 പിക്കോഫറാഡ് 500 501 സ്റ്റിച്ച് Pi എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെയുള്ള ഗേറ്റിന് സവിശേഷതകൾ nMOS ന് 0 36 മൈക്രോമീറ്ററാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ nMOS ആയ ഗ്രൌണ്ടിലേക്കുള്ള പാത പരിഗണിക്കുന്നു അതിനാൽ നിങ്ങൾ 2 5 കിലോ 0 36 കൊണ്ട് ഗുണിച്ചാൽ ഞങ്ങൾ കണക്കാക്കിയാൽ അത് 690 ohm വരും അതിനാൽ ഇവിടെ ഫലപ്രദമായ പ്രതിരോധശേഷിയുള്ള ലോഡ് 65 ohm ആയിരിക്കും അതുപോലെ മറുവശത്ത് 2 ട്രാൻസിസ്റ്ററുകളുണ്ട് തീർച്ചയായും 2 x അതിനാൽ n p തരങ്ങളുടെ കപ്പാസിറ്റൻസ് നിങ്ങൾ സമാനമായി കണക്കാക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും ഇവിടെ കാണിക്കുന്നില്ല ഇത് 4 ഫെംറ്റോഫാരഡിലേക്ക് വരുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഈ മുഴുവൻ സർക്യൂട്ടും അനുകരിക്കുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ ഡ്രൈവർ മാതൃകയാക്കി ഫലപ്രദമായി ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ ഉണ്ട് അതിനാൽ ഞാൻ പറയുന്നത് അവിടെ ഒരു പുൾ ഡൌൺ ഉണ്ട് ഒരു പുൾ അപ്പ് ഉണ്ട് അതിനാൽ ഈ മാതൃകയിൽ ഞാൻ ഗ്രൌണ്ടിലേക്കുള്ള പാത നോക്കുന്നു അതിനാൽ പുൾ ഡൌൺ 690 ohm ആണ് ഇവിടെ ഫലമുണ്ട് ഒരു കപ്പാസിറ്റീവ് ലോഡ് ഉണ്ട് ഇത് ട്രാൻസിസ്റ്ററുകളുടെ പുൾ അപ്പ് പുൾ ഡൌൺ വലിപ്പം സൂചിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇത് അനുകരിക്കുകയാണെങ്കിൽ ഡിലേയ് ഏകദേശം 1 1 നാനോ സെക്കന്റുകളായി വരും അതിനാൽ നമുക്ക് ഇതുപോലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് കാണിക്കുന്നു അതിനാൽ ഇതുപോലുള്ള ചില മോഡലിംഗ് ഉപയോഗിച്ചും തുടർന്ന് സിമുലേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഡിലേയ് ലഭിക്കുന്ന ഉപകരണങ്ങൾ ലഭ്യമാണ് അടുത്തതായി നമുക്ക് ക്രോസ്റ്റോക്കിനുള്ള പ്രശ്നങ്ങളിലേക്ക് വരാം ഇപ്പോൾ ഒരു കപ്പാസിറ്റർ ചാർജ് കൈവശം വയ്ക്കുന്നു അതിലൂടെയുള്ള വോൾട്ടേജ് തൽക്ഷണം മാറ്റില്ല അതിനാൽ കപ്പാസിറ്റർ അതിന്റെ പ്ലേറ്റുകളിലുടനീളം ഒരു ചാർജ് പിടിച്ചിരിക്കുന്നതിനാൽ ചാർജ് നീങ്ങാനും പിരിച്ചുവിടാനും കുറച്ച് സമയമെടുക്കും അതിനാൽ വോൾട്ടേജ് v ൽ നിന്ന് 0 ലേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് തൽക്ഷണം പറയാൻ കഴിയില്ല അതിനായി സമയമെടുക്കുന്നു അതിനാലാണ് ഡികെയിങ്ങും ചാർജിംഗ് ഡിസ്ചാർജിംഗ് സംഭവിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉയർന്ന ശേഷിയുള്ള 2 സമാന്തര വയറുകൾ ഉണ്ട് നമുക്ക് ഇവിടെ കാണിക്കാൻ ശ്രമിക്കാം ഇതുപോലൊരു വയർ ഉണ്ട് ഇതുപോലെ മറ്റൊരു വയർ ഉണ്ട് അതിനാൽ ഈ 2 വയറുകൾക്കിടയിൽ ഉയർന്ന കപ്പാസിറ്റൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം അതിനാൽ ഒരു വയറിൽ 0 മുതൽ 1 വരെ അല്ലെങ്കിൽ 1 മുതൽ 0 വരെ ഒരു സിഗ്നൽ പരിവർത്തനം ഉണ്ടെങ്കിൽ മറ്റേ വയർ എന്തെങ്കിലും വഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥിരമായ വോൾട്ടേജ് സിഗ്നൽ വഹിക്കുന്നുവെന്ന് നമുക്ക് പറയാം അത് ഒരു സ്ഥിരാങ്കം വഹിക്കുന്നുവെന്ന് നമുക്ക് പറയാം വോൾട്ടേജ് സിഗ്നൽ എന്നാൽ ഈ കപ്പാസിറ്റീവ് പ്രഭാവം കാരണം അത് സംഭവിക്കും അതിനാൽ മറ്റെ വരിയിൽ പെട്ടെന്നുള്ള ഉയർച്ചയുണ്ടാകുമ്പോഴെല്ലാം ഇവിടെയും ഇതുപോലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാകും വീണ്ടും ഇവിടെ ഇതുപോലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാകും ലൈനുകൾക്കിടയിലുള്ള ക്രോസ് സ്റ്റോക്ക് ഇഫക്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത് കപ്പാസിറ്റീവ് കപ്ലിംഗ് അല്ലെങ്കിൽ ക്രോസ്റ്റാക്ക് ആണ്

ഇപ്പോൾ ഈ ക്രോസ്സ്റ്റാക്ക് എന്തിൽ കലാശിക്കുന്നു ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ നോൺ സ്വിച്ചിംഗ് വയറുകളുടെ ശബ്ദം ഈ രണ്ടാമത്തെ വയർ നില മാറുന്നില്ല മാറുന്നില്ല ആദ്യത്തേത് മാറുന്നു അതിനാൽ നോൺ സ്വിച്ചിംഗ് വയറിൽ കുറച്ച് ശബ്ദം ഉണ്ടാകുന്നു രണ്ടാമതായി സ്വിച്ചിംഗ് വയറിൽ ഡിലേയ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് സാധാരണയായി ഈ ഇന്റർകണക്ഷൻ വയർ ചില കപ്പാസിറ്റീവ് ലോഡിനെ അഭിമുഖീകരിക്കുകയായിരുന്നു അതിനാൽ ഇത് CL ആണെങ്കിൽ ഈ പ്രതിരോധം R ആണെങ്കിൽ RC ഡിലേയ് ഉണ്ടായിരുന്നു RCLന് ആനുപാതികമാണ് പക്ഷേ ഇപ്പോൾ C യും ചിത്രത്തിലേക്ക് വരുന്നതിനാൽ ഈ CL മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിനാൽ RC മൂല്യവും വർദ്ധിക്കും അതിനാൽ സിഗ്നൽ ലൈനിലെ ഡിലേയും വർദ്ധിക്കും ഇപ്പോൾ നമുക്ക് അതിനെ കുറച്ചുകൂടി വിശദമായി നോക്കാം ഞാൻ A യും B യും കാണിച്ച ഈ 2 വയറുകൾ പറയട്ടെ അതിനാൽ അവയ്ക്കിടയിലുള്ള കപ്പാസിറ്റൻസ് ഇതുപോലെ കാണിക്കുന്നു ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഡയഗ്രം പോലെ ഇതിനെ C തൊട്ടടുത്തായി പരാമർശിക്കുന്നു ഈ രണ്ട് വയറുകളും വലതുവശത്ത് ചില പാളികളിൽ പ്രവർത്തിക്കുന്നു അതിന് താഴെ അടിവസ്ത്രമുണ്ട് കൂടാതെ അടിവശം സാധാരണയായി ഗ്രൌണ്ടിനോടൊ നിശ്ചിത സാധ്യതകളോടോ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ വയറിന് ഈ അടിത്തറയിൽ ഒരു കപ്പാസിറ്റൻസും ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ നമുക്ക് അതിനെ C ഗ്രൌണ്ട് എന്ന് വിളിക്കാം മൂല്യം ഒന്നുതന്നെയാണെന്ന് നമുക്ക് പറയാം അതിനാൽ തത്തുല്യമായ മോഡൽ ഇതുപോലെ കാണപ്പെടുന്നു ഈ C ഗ്രൌണ്ട് നമ്മൾ സംസാരിക്കുന്നതെന്തും ഞങ്ങൾ ഒരൊറ്റ കപ്പാസിറ്റൻസായി കാണിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് അതിന്റെ മുകളിലെ പാളിയിലേക്കും താഴത്തെ പാളികളിലേക്കും ഉള്ള കപ്പാസിറ്റൻസിന്റെ ആകെത്തുകയായിരിക്കും തത്തുല്യമായ സർക്യൂട്ട് ഞാൻ അവരെ ഒന്നായി കാണിക്കുന്നു ഇപ്പോൾ മില്ലറുടെ ഒരു നിയമമോ നിർദ്ദേശമോ ഉണ്ട് അതിനെ മില്ലർ എഫ്ഫക്റ്റ് എന്ന് വിളിക്കുന്നു 2 വയറുകൾക്കിടയിലുള്ള കപ്പാസിറ്റൻസിന്റെ ഫലപ്രദമായ മൂല്യം അത് അവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു അതിനാൽ 2 വയറുകൾക്കിടയിലുള്ള കപ്പാസിറ്റൻസ് ഇതാണ് എന്ന് നിങ്ങൾക്ക് സ്റ്റാറ്റിക്കലായി പറയാൻ കഴിയില്ല അവ എങ്ങനെ മാറുന്നു എന്നതിനെ ആശ്രയിച്ച് 3 സാഹചര്യങ്ങളുണ്ടാകാം അവ ഒട്ടും മാറുന്നില്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കപ്പാസിറ്റൻസ് ഇല്ല പ്രശ്നമില്ല എന്നാൽ ഒരു സ്വിച്ചിംഗ് ഉള്ളപ്പോഴെല്ലാം പ്രശ്നം വരുന്നു ഇപ്പോൾ 3 സാഹചര്യങ്ങളുണ്ട് ഒന്ന് ആദ്യത്തെ വയർ 0 മുതൽ 1 അല്ലെങ്കിൽ 1 വരെ 0 എന്ന് മാറുന്നു രണ്ടാമത്തെ വയർ ഞാൻ എടുത്ത ഉദാഹരണം പോലെ മാറുന്നില്ല അടുത്തതായി രണ്ട് വയറുകളും മാറുകയും അതേ ദിശയിൽ 0 മുതൽ 1 വരെ അല്ലെങ്കിൽ രണ്ടും 1 മുതൽ 0 മൂന്നാമത്തെ കേസുകൾ രണ്ടും മാറുകയും ചെയ്യുന്നു എന്നാൽ വിപരീത ദിശയിൽ ആദ്യം ഒന്ന് മുതൽ 0 വരെ മാറുന്നു രണ്ടാമത്തേത് 0 ൽ നിന്ന് 1 ലേക്ക് മാറുന്നു വിപരീത ദിശ അതിനാൽ ഈ 3 കേസുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു ഇതിനർത്ഥം ഞാൻ ഇപ്പോൾ മറ്റൊരു വരിയിലെ പ്രഭാവം നോക്കുന്നു എന്നാണ് ഇത് യഥാർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിനാൽ A ലൈനിൽ ഒരു പരിവർത്തനമുണ്ട് ഇപ്പോൾ B സംഭവിക്കുന്നത് ആദ്യ കേസിലെ പോലെയാണ് B സ്ഥിരമായിരുന്നു Aയിൽ ഡെൽറ്റ Vക്ക് തുല്യമായ വോൾട്ടേജിൽ ഒരു മാറ്റം സംഭവിച്ചു നമുക്ക് പറയാം നമുക്ക് ഡെൽറ്റ ആണെന്ന് പറയട്ടെ VDD 0 മുതൽ VDD വരെ അത് മാറിക്കൊണ്ടിരുന്നു അതിനാൽ ഫലപ്രദമായ കപ്പാസിറ്റൻസ് C ഗ്രൌണ്ട് C അഡ്ജസൻറയിരിക്കും കാരണം അവയിലൊന്ന് ഗ്രൌണ്ടായിരുന്നു മറ്റൊന്ന് മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കേസ് രണ്ടും ഒരുമിച്ച് മാറുന്നു എന്നതാണ് അതിനാൽ ഡെൽറ്റ V എന്നാൽ ഈ പോയിന്റിലുടനീളമുള്ള വോൾട്ടേജിലെ മാറ്റം എന്നാണ് 0 അതിനാൽ ഈ കപ്പാസിറ്റീവ് പ്ലേറ്റിൽ വോൾട്ടേജില്ല അതിനാൽ C അഡ്ജസൻറ് ചിത്രത്തിലേക്ക് വരില്ല കപ്പാസിറ്റൻസ് നിലത്തുമാത്രം C ഗ്രൌണ്ട് മാത്രമേ ചിത്രത്തിലേക്ക് വരികയുള്ളൂ എന്നാൽ അവ വിപരീത ദിശയിലേക്ക് മാറുകയാണെങ്കിൽ അവയിലൊന്ന് 0 മുതൽ 1 വരെയും മറ്റൊന്ന് 1 മുതൽ 0 വരെയുമാണ് പോകുന്നതെങ്കിൽ വോൾട്ടേജുകളിലെ വ്യത്യാസം രണ്ടുതവണയാകാം 2 VDD അല്ലേ ഇത് 0 മുതൽ VDD വരെ പോകുന്നു ഇത് VDD ൽ നിന്ന് 0 ലേക്ക് പോകുന്നു അതിനാൽ ഡെൽറ്റ മാറ്റം രണ്ട് തവണ VDD ആകാം കാരണം ഇത് VDD ഉം മാറിക്കൊണ്ടിരിക്കുന്നു ഇത് VDD മൈനസ് മാറ്റുന്നു അതിനാൽ ഇവിടെ അടുത്തുള്ള കപ്പാസിറ്റൻസിന്റെ പ്രഭാവം ഇരട്ടിയാകും അതിനാൽ A പ്രകടിപ്പിക്കുന്ന ഫലപ്രദമായ കപ്പാസിറ്റൻസ് ഇതായിരിക്കും മില്ലർ എഫ്ഫക്റ്റ് കാരണം മൂന്നാമത്തെ നിരയെ മില്ലർ കോഫിഫിഷ്യന്റ് ഫാക്ടർ എന്ന് വിളിക്കുന്നു അതിനാൽ രണ്ടും ഒരുമിച്ച് മാറുമ്പോൾ എഫ്ഫക്റ്റ് ഏറ്റവും കുറവാണ് അതിനാൽ ഞങ്ങൾ അതിനെ ഒരു ആപേക്ഷിക മൂല്യം 0 കൊണ്ട് സൂചിപ്പിക്കുന്നു അതായത് ഇതാണ് മികച്ച സാഹചര്യം അതിനാൽ അവയിലൊന്ന് സ്ഥിരമായിരിക്കുകയും മറ്റൊന്ന് മാറുകയും ചെയ്യുമ്പോൾ പ്രഭാവം 1 ൽ കൂടുതൽ പ്രതിനിധീകരിക്കുന്നു പക്ഷേ അവ വിപരീത ദിശയിലേക്ക് മാറുമ്പോൾ അത് വളരെ കഠിനമാണ് ഞങ്ങൾ അതിനെ 2 കൊണ്ട് പ്രതിനിധീകരിക്കുന്നു സാധാരണയായി ക്രോസ്സ്റ്റാക്ക് സംബന്ധിച്ച് ഒരു സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളെ വ്യത്യസ്ത MCF മൂല്യങ്ങളാൽ നമുക്ക് നിർവചിക്കാൻ കഴിയും അതുവഴി നിങ്ങൾക്ക് MCF മൂല്യം കൂടുതൽ നിർണ്ണായകമാണെന്നും ആവശ്യങ്ങൾ ഉടനടി ശ്രദ്ധിക്കേണ്ടതാണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് കൂടുതൽ ക്രോസ്സ്റ്റാക്ക് ശബ്ദം നോക്കാം ഈ സമവാക്യങ്ങളും ഫോർമുലേഷനുകളും അർത്ഥമാക്കുന്നത് ഈ 2 വയറുകൾ മാറുന്നത് കാണുക ഒരു വയറിൽ മറ്റൊന്നിൽ വോൾട്ടേജ് ബാധിക്കുന്നു അവയെ സാധാരണയായി അഗ്ഗ്രെസ്സർ ആൻഡ് വിക്ടിം എന്ന് വിളിക്കുന്നു അതിനാൽ സിഗ്നൽ സംക്രമണം സംഭവിക്കുന്ന വയർ ആണ് അഗ്ഗ്രെസ്സർ വിക്ടിമാണ് ശബ്ദം കൂട്ടിയിണക്കുന്ന വയർ അതിനാൽ മുൻ ഡയഗ്രം പിന്തുടരുന്നതുപോലെ 2 വയറുകൾക്കിടയിൽ കപ്പാസിറ്റൻസ് C അഡ്ജസൻറ് ആയിരുന്നു ഇത് C അഡ്ജസൻറ് ആണ് വിക്ടിം C g D എന്ന ഗ്രൌണ്ടിലേക് മറ്റൊരു കപ്പാസിറ്റൻസ് അനുഭവിക്കുന്നു അഗ്ഗ്രെസ്സർ ഒരു വോൾട്ടേജ് ഡെൽറ്റ V അഗ്രസ്സർ ഉപയോഗിച്ച് മാറ്റുന്നുവെന്ന് കരുതുക അതിനാൽ ഇവിടെ ഇരയുടെ വോൾട്ടിലും ഇവിടെയുള്ള വോൾട്ടേജിലും എത്രമാത്രം മാറ്റം വരും അതിനാൽ ഇത് ഒരു ലളിതമായ കപ്പാസിറ്റർ സമവാക്യമാണ് നിങ്ങൾ ഒരു ലളിതമായ സർക്യൂട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വോൾട്ടേജിലെ മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും അവ പരമ്പരയിലെ 2 കപ്പാസിറ്റൻസുകളാണ് ഇതിനർത്ഥം ഇത് ഇതുപോലുള്ള ഒരു സമാന്തര കണക്ഷൻ പോലെയാകും C അഡ്ജസൻറ് C g ഗ്രൌണ്ട് സി അഡ്ജസൻറ് ഇത് ഗുണിച്ചാൽ അതിനാൽ C അഡ്ജസൻറ് മൂല്യം വലുതാകുമ്പോൾ ഇതിന്റെ എഫ്ഫക്റ്റ് കൂടുതലായിരിക്കും എന്നാൽ C അഡ്ജസൻറ് വളരെ ചെറുതാണെങ്കിൽ ഡെൽറ്റ V അഗ്രസ്സർ അപ്പോൾ ഈ ഡെൽറ്റ V വിക്ടിം ചെറുതായിത്തീരും നമുക്ക് മറ്റൊരു കേസ് എടുക്കാം അതിനാൽ ഇവിടെ വിക്ടിമിനെ നയിക്കുന്നത് ശബ്ദ പോരാട്ടം നയിക്കുന്ന ഒരു ഗേറ്റ് ആണ് അതിനർത്ഥം മുമ്പത്തെ കേസിൽ വിക്ടിം ഫ്ലോട്ടിംഗ് ആയ ഒരു ലൈനാണെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ ഈ ഗേറ്റ് ഓടിക്കുന്ന ഗേറ്റുകളൊന്നുമില്ല പക്ഷേ ഇവിടെ ഞാൻ അനുമാനിക്കുന്നത് ഒരു ഇൻവെർട്ടർ ഉണ്ടെന്ന് പറയട്ടെ ഇതിന്റെ ഔട്ട്പുട്ട് വിൿറ്റിമായി ബന്ധിപ്പിച്ചിരിക്കുന്നു മുമ്പത്തെ കേസിൽ ഇൻവെർട്ടർ ഞങ്ങൾ അത് മോഡൽ ചെയ്യാമെന്ന് പറഞ്ഞു ഈ R വിക്ടിം പ്പോലെ തുല്യമായ ലോഡ് പ്രതിരോധത്തിലൂടെ ഇപ്പോൾ നിങ്ങളുടെ തത്തുല്യമായ സർക്യൂട്ട് ഇതുപോലെ കാണപ്പെടുന്നു ഇവിടെ R വിക്ടിം ഉണ്ട് അതിനാൽ നിങ്ങൾ വീണ്ടും ഈ സർക്യൂട്ടിൽ ഒരു കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ അനാലിസിസ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സമവാക്യം ലഭിക്കുമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് വിക്ടിമിലെ വോൾട്ടേജിലെ മാറ്റം ഇതായിരിക്കും ഈ പദം ഒന്നുതന്നെയാണ് C അഡ്ജസൻറ് C ഗ്രൌണ്ട് പ്ലസ് C അഡ്ജസൻറ് ഡെൽറ്റ അഗ്ഗ്രെസ്സർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പുതിയ ഘടകം 1 1 k എവിടെയാണ് k tau അഗ്ഗ്രെസ്സർ tau വിക്ടിം അതായത് R അഗ്രസറുടെ RC ഡിലേയ് മൊത്തം കപ്പാസിറ്റൻസ് വിക്ടിമിന്റെ ഈ R ഈ k 0 ന് അടുത്താണെങ്കിൽ ഇര ഫ്ലോട്ടിംഗിന് തുല്യമാകും പക്ഷേ k കൂടുന്നതിനനുസരിച്ച് മൂല്യം മാറുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഈ മൂല്യം കുറവായിരിക്കും അതിനാൽ വാസ്തവത്തിൽ ഈ ഇൻവെർട്ടർ ഈ ക്രോസ് ടോക്കിനെതിരെ പോരാടാൻ ശ്രമിക്കുന്നു ഇത് ക്രോസ് ടോക്ക് ശബ്ദം കുറയ്ക്കുന്നു കാരണം മുമ്പ് വയർ ഫ്ലോട്ടിംഗ് ചെയ്യുമ്പോൾ മൂല്യം കൂടുതലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഈ K ക്കെതിരെ പോരാടുന്നതിനാൽ ഇത് 0 ൽ കൂടുതലാണെങ്കിൽ മൂല്യം കുറയും ഡിനോമിനേറ്റർ കൂടുതലായിരിക്കും നിങ്ങളുടെ സർക്യൂട്ട് സഹിക്കാനാകുമെന്ന് കരുതുന്ന ശബ്ദ മാർജിനെക്കാൾ ശബ്ദം കുറവാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ലെന്ന് ചില ലളിതമായ ശബ്ദ സൂചനകൾ പറയുന്നു ഇത് ഒരു സ്റ്റാറ്റിക് CMOS യുക്തി ആണെങ്കിൽ ശബ്ദമുണ്ടായാൽ പോലും ചില സ്പൈക്കുകൾ അതിനാൽ അത് ഒടുവിൽ പരിഹരിക്കപ്പെടും നിങ്ങൾ ഡൈനാമിക് CMOS ലോജിക് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നം വരും പ്രീ ചാർജ് ലോജിക് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഡിസ്ചാർജ് ചെയ്തേക്കാം അല്ലാത്തപക്ഷം പ്രധാനപ്പെട്ട ചില വോൾട്ടേജുകൾ പക്ഷേ ഈ തകരാറുകൾ കാരണം ഈ ശബ്ദ ഡിലേയ് വർദ്ധിക്കുകയും സമാനമായി DRAM നെ ഓർമ്മിക്കുകയും ചെയ്യുന്നു ഡാറ്റ കപ്പാസിറ്റൻസായി സംഭരിക്കുന്ന ഡൈനാമിക് RAM കപ്പാസിറ്റൻസിൽ ചാർജ്ജ് ആയി ഈ ശബ്ദം കാരണം ചില കപ്പാസിറ്റൻസുകൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടേക്കാം അതിനാൽ ഉത്തരം തെറ്റായിരിക്കാം അതിനർത്ഥം നിങ്ങൾക്ക് വയർ എഞ്ചിനീയറിംഗ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം ഈ കപ്പാസിറ്റീവിനെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കും എന്നതുപോലെ ഈ ശബ്ദത്തെയും ബാധിക്കും വരയുടെ വീതിയും വരയുടെ അകലവും ഉപയോഗിച്ച് കളിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ട് അതിനാൽ ഏത് ലെയറിലാണ് നിങ്ങൾ ഇത് വരയ്ക്കുന്നത് ലെയറിനെ ആശ്രയിച്ച് നിങ്ങൾ കണ്ടതുപോലെ കപ്പാസിറ്റീവ് റെസിസ്റ്റീവ് ഇഫക്റ്റുകൾ വ്യത്യസ്തമായിരിക്കും ഷീൽഡിംഗ് എന്ന് വിളിക്കുന്നു ഷീൽഡിംഗ് പ്രധാനമാണ് ഞാൻ നിരവധി ഉദാഹരണങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ കേസ് ഷീൽഡിംഗ് അല്ല a0 b0 a1 b1 a2 b2 6 വരികൾ പരസ്പരം സമാന്തരമായി വശങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നു എന്നാൽ ഇവിടെ നമുക്ക് a0 a1 a2 എന്ന് പറയാം ഞാൻ അവയിൽ 3 VDD ഗ്രൌണ്ട് VDD ഗ്രൌണ്ട് കാണിക്കുന്നു അതിനാൽ അവ വൈദ്യുതി വിതരണ ലൈനുകൾക്കിടയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരുതരം സംരക്ഷണമുണ്ട് അതിനാൽ ഷീൽഡിംഗ് കാരണം ഈ വരികളിലെ ശബ്ദം അടുത്ത സിഗ്നൽ ലൈനിലേക്ക് പ്രചരിപ്പിക്കില്ല അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കവചങ്ങൾക്കിടയിൽ ഒന്നിലധികം വരികൾ സൂക്ഷിക്കാൻ കഴിയും VDD പിന്നെ 2 a0 a1 പിന്നെ ഗ്രൌണ്ട് പിന്നെ a2 a3 പിന്നെ VDD തുടങ്ങിയവ അതിനാൽ ഇവ സാധാരണയായി ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകളാണ് റിപ്പീറ്ററുകൾ ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഞാൻ ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല അതിനാൽ ഒരു വയറിന്റെ ഡിലേയ് നീളത്തിന് ആനുപാതികമാണെന്ന് ഞങ്ങൾ കണ്ടു അതിനാൽ ഈ R നീളത്തിന് ആനുപാതികമാണ് C നീളത്തിനും ആനുപാതികമാണ് അതിനാൽ RC ഡിലേയ് L സ്ക്വയറിന് ആനുപാതികമായി മാറുന്നു അതിനാൽ നിങ്ങൾ ചെയ്യുന്നതെന്തും ഞങ്ങൾ L ന്റെ നീളം N എന്ന വിഭാഗങ്ങളായി L N L N L N ആയി വിഭജിക്കുന്നു ഇത് ഞങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ട് ആവർത്തിച്ചുള്ള രൂപകൽപ്പനയ്ക്ക് ഞങ്ങൾ അതിനെ എൽ എൻ ആയി വിഭജിക്കുകയാണെങ്കിൽ അതിനാൽ ഓരോ വിഭാഗവും L N ദൈർഘ്യമുള്ളതായിരിക്കും അതിനാൽ വയർ കപ്പാസിറ്റൻസ് ഒരു അടിസ്ഥാന ചതുരത്തിന്റെ കപ്പാസിറ്റൻസായിരിക്കും L N പ്രതിരോധം ഒരു അടിസ്ഥാന ചതുരത്തിൽ നിന്ന് L ആകും അതിനാൽ W ഇൻവെർട്ടർ വീതി ആണെങ്കിൽ സാധാരണയായി pMOS ഹോൾഡുകളുടെ മൊബിലിറ്റി കാരണം പറഞ്ഞതുപോലെ വലിയതാണ് അതിനാൽ W 2 W ആണ് ഞങ്ങളുടെ സാധാരണ മൂല്യം ഇത് സാധാരണയായി 2 W ൽ കുറവാണ് അതിനാൽ ഗേറ്റ് കപ്പാസിറ്റൻസ് മൂല്യം ഈ വരിയിലായിരിക്കും പ്രതിരോധ മൂല്യം W കൊണ്ട് ഹരിക്കുകയും കപ്പാസിറ്റൻസ് W ആനുപാതികമായി വർദ്ധിക്കുകയും ചെയ്യും മുഴുവൻ വയറിനും തുല്യമായ സർക്യൂട്ടിൽ വയർ കപ്പാസിറ്റൻസ് മുഴുവൻ നീളത്തിലും Cw ആയിരിക്കും പ്രതിരോധം മുഴുവൻ നീളത്തിലും Rw ആയിരിക്കും അതിനാൽ തുല്യമായ സർക്യൂട്ട് ഇതുപോലെ കാണപ്പെടും അതിനാൽ ഡ്രൈവിംഗ് സർക്യൂട്ടിൽ അത് R W ആയിരിക്കും ഇൻവെർട്ടർ ലോഡ് കപ്പാസിറ്റി Cw ലോഡ് ചെയ്യും ഇവിടെ ഓരോ സെഗ്മെന്റിനും RC ഡിലേയ്ക്കുവേണ്ടി അത് Rw N ആകും ഇത് Cw L 2 N CW L 2 N ആയിരിക്കും അതിനാൽ ഇന്റർകണക്ട് മോഡലിംഗിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ചയുടെ അവസാനത്തോടെ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നോക്കാം അതിനാൽ ഈ അകലവും ലൈനുകളുടെ വീതിയും എങ്ങനെ നിർണ്ണയിക്കും അതിനാൽ ഇത് ഡിസൈൻ നിയമങ്ങൾ എന്ന് ഞാൻ വിളിക്കുന്ന ഒന്നാണ്